ഹലോ സെക്യൂർ സിസ്റ്റംസ് എൻജിനീയറിങ്ങിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്കു സ്വാഗതം മുമ്പത്തെ ലെക്ച്ചറിൽ നമ്മൾ ഫാൻസി എന്ന ഐപി കോറിൽ ട്രോജൻ കാണാൻ സാധ്യത ഉള്ള മേഖല കണ്ടുപിടിക്കാനുള്ള ടെക്നികിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചിപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്തതിനു ശേഷം ഹാർഡ്വെയർ ട്രോജൻ കണ്ടുപിടിക്കുന്നതിനുള്ള വേറൊരു ടെക്നിക് നോക്കാം ഒരു ഐസി യുടെ ഡിസൈനിലും ഫാബ്രിക്കേഷനിലും പല കൂട്ടർ പങ്കെടുക്കാറുണ്ടെന്ന് മുമ്പത്തെ ലെക്ച്ചറിൽ നമ്മൾ കണ്ടതാണ് അതായത് ഒരു കമ്പനി ഐപി കോർ വാങ്ങുമ്പോൾ അതിൽ പല തേർഡ് പാർട്ടീസ് പങ്കാളികളാകും പല പല ടൂൾസ് ഉൾപ്പെടും പല വിധത്തിലുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ടാകും അത്യന്തമായി ചിലപ്പോൾ ഈ ഫാബ്രിക്കേഷൻ വേറെ പലയിടത്തും വച്ചായിരിക്കും നടന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ മുമ്പ് കണ്ടത് പോലെ ഡിസൈനിലും ഫാബ്രിക്കേഷനിലും ഉള്ള പല സ്റ്റേജുകളിലും ഹാർഡ്വെയർ ട്രോജൻ ഉൾക്കൊള്ളിക്കാൻ സാധ്യത ഉള്ള സൈറ്റ്സ് ആണ് ആത്യന്തികമായി പറഞ്ഞാൽ ഫാബ്രിക്കേഷനു ശേഷം പാക്കേജ് ടെസ്റ്റിംഗ് ഡിപ്ലോയ്മെൻറ് എല്ലാം കഴിഞ്ഞു നമുക്ക് ഒരു കംപ്ലീറ്റ് ചിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിനു ട്രോജൻ അല്ലെങ്കിൽ ഹാർഡ്വെയർ ബാക്ക്ഡോർ ഉണ്ടോ എന്ന് കണ്ടുപ്പിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ലെക്ച്ചറിൽ നമ്മൾ ഈ ഒരു മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത് IC ൽ ഹാർഡ്വെയർ ട്രോജൻറെ സാന്നിധ്യം കണ്ടുപ്പിടിക്കുന്നതിനുള്ള അവരുടെ ടെക്നിക്കുകളുടെ പല സ്റ്റേറ്റുകൾ കാണാം പക്ഷേ പല ടെക്നിക്കുകളും ഗവേഷണത്തിൻറെ ആദ്യ ഘട്ടങ്ങളിലാണ് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടെക്നിക്കിന് വിജയ സാധ്യത വളരെ കുറവുമാണ് IC ൽ ട്രോജൻറെ സാന്നിധ്യം കണ്ടുപ്പിടിക്കാൻ മുമ്പുകാലങ്ങളിൽ പലവിധത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു ഒപ്റ്റിക്കൽ ഇൻസ്പെക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടെക്നിക്കുകളായ സ്കാനിംഗ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി സ്കാനിംഗ് എലെക്ട്രോൺ മൈക്രോസ്കോപ്പി മുതലായവ അതിനായി ചെയ്യാനുള്ളത് ഫാബ്രിക്കേറ്റെഡ് ചിപ്പിന്റെ പാക്കേജ് നീക്കം ചെയ്ത് SOM SEM പോലുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക എന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള അഡിഷണൽ മോഡിഫിക്കേഷൻ ഡിസൈനിൽ വരുത്തിയിട്ടുള്ളത് ഈ മൈക്രോസ്കോപ്പി ടെക്നിക്കിന് കണ്ടുപ്പിടിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ പല പോസ്റ്റ് ഫാബ്രിക്കേഷൻ ടെസ്റ്റിംഗ് ടെക്നിക്കുകളും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇവയൊന്നും അത്ര ശക്തമായതോ ഹാർഡ്വെയർ ട്രോജൻ കണ്ടെത്തുന്നതിൽ കാര്യപ്രാപ്തി ഉള്ളവയോ ആയിരുന്നില്ല സൈഡ് ചാന്നൽ മെക്കാനിസം ആണ് ഈ അടുത്തകാലത്ത് ഗവേഷണ പഠനങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വിജയ സാധ്യത ഉള്ള ടെക്നിക്ക് ഇത് സാധാരണ ഉപാധികളെക്കാൾ ഫലപ്രദമായതും അത്ര ചിലവേറിയതുമല്ല ചിപ്പ് പവർ ഓൺ ആക്കി പല പല ടെസ്റ്റ് വെക്ടർസിനു അനുസൃതമായി പവർ ഉപഭോഗം നിരീക്ഷിക്കലാണ് പ്രധാനമായി ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഈ പവർ ഉപഭോഗം ഇനി ട്രോജൻ ഒന്നും ഇല്ലാത്ത ഗോൾഡൻ റെഫറൻസുമായി താരതമ്യം ചെയ്യുന്നു ചിപ്പിൻറെ ഗോൾഡൻ റെഫറൻസിലെ പവർ പ്രൊഫൈലും പവർ ഉപഭോഗവും ഒന്നാണെങ്കിൽ ട്രോജന്റെ സാന്നിധ്യം ഇല്ലെന്നു ഉറപ്പിക്കാം പവർ പ്രൊഫൈലിൽ നിന്ന് നേരിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ട്രോജന്റെ സാന്നിധ്യം ഉറപ്പിക്കാം അപ്പോൾ നമുക്ക് കുറച്ചു കൂടി വിശദമായി കാണാം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഈ ടെക്നിക്കിനെ കുറിച്ചു കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനായി നമുക്ക് വെബ്ബിൽ ലഭ്യമായ ഈ ഗവേഷണ പഠനം പരിശോധിക്കാം നമ്മൾ വിശകലനം ചെയ്യുന്ന ക്രിപ്റ്റോഗ്രാഫിക് സൈഫറിന്റെ ഇമ്പ്ലിമെൻറ്റേഷൻ ആയ ഈ ടെസ്റ്റ് സർക്യൂട്ട് പ്രസൻറ് എന്നാണറിയപെടുന്നത് അപ്പോൾ ഈ ഹാർഡ്വെയർ ഡിസൈൻ സീക്രട്ട് കീയും പ്ലെയിൻ ടെക്സ്സ്റ്റും ഇൻപുട്ട് ആയി സ്വീകരിച്ച് സൈഫർ ടെക്സ്റ്റ് ഔട്ട്പുട്ട് നൽകുന്നു മാത്രമല്ല പ്രവർത്തനം പൂർത്തിയായതായി സിഗ്നേച്ചറും നൽകുന്നു അതുകൊണ്ട് ഫാബ്രിക്കേറ്റെഡ് IC യുടെ പവർ പ്രൊഫൈലിൽ സ്വരൂപിക്കുന്നതിനായി ചിപ്പ് പവർ ഓൺ ചെയ്ത് പല പല ഇൻപുട്ട്സ് കൊടുക്കുന്നു ഈ ഇൻപുട്ടുകളും കീയും ചേർത്ത് എൻക്രിപ്ട് ചെയ്തു സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു അതിനോട് ചേർന്ന് എൻക്രിപ്ഷൻ പ്രോസസ്സിനു ഒപ്പം ചിപ്പിൻറെ പവർ ഉപഭോഗം ഒരു ശക്തമായ ഓസ്സിലോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു അങ്ങനെ ഇവിടെ നിങ്ങൾ ഈ കാണുന്നതാണ് പവർ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മൾ നൽകിയ ഇൻപുട്ടിന് അനുസൃതമായി ശേഖരിച്ച പവർ ട്രേസസ്സ് ഈ X ആക്സിസിൽ കാണുന്നതാണ് ടൈം സാമ്പ്ൾസ് എന്നാൽ Y ആക്സിസിൽ ഉള്ളതാണ് നോർമലൈസ്ഡ് പവർ കൺസമ്പ്ഷൺ അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ഈ രണ്ടു ഡിസൈൻ ആണ് G ഉം G ഉം അത് കൊണ്ട് ഈ രണ്ടിനെയും ഗോൾഡൻ മോഡൽസ് ആയി പരിഗണിക്കുന്നു അത് പോലെ തന്നെ ട്രോജൻ സന്നിഹിതമല്ലെന്നും അതായത് നമ്മളിവിടെ കാണുന്നത് ഈ രണ്ടു ഡിവൈസുകളുടെയും പവർ പ്രൊഫൈൽ കൃത്യമായും തുല്യമാണ് അപ്പോൾ ഇതാണ് ഈ പവർ ആണ് ഈ ഡിവൈസുകൾക്ക് നൽകിയതും അതേ ഇൻപുട്ടും കീയും ഒരുമിച്ചു പ്ലോട്ട് ചെയ്തപ്പോൾ ലഭിച്ചതും ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസുകളും ട്രോജൻ അടങ്ങിയിരിക്കുന്ന ഒരു ഡിവൈസുമായി താരതമ്യം ചെയ്യാം ഈ ട്രോജൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഉണ്ടാക്കിയതാണ് ഇതിൽ ഒരു ട്രിഗർ സർക്യൂട്ടും കുറച്ചു ഫ്ളിപ് ഫ്ളോപ്പുകളും ഉണ്ട് ഒരു ട്രിഗർ വന്നാൽ ഈ കീ സൈഫർ ടെസ്റ്റിലൂടെ ലീക്ക് ഔട്ട് ആകും നമ്മൾ അതിൻ്റെ ചിപ്പ് ലെവൽ ഡീറ്റെയിൽസിലേക്കു കടക്കുമ്പോൾ ഇത് ഗോൾഡൻ റെഫറൻസ് ഇങ്ങനെയാണ് ട്രോജൻ അടങ്ങിയിട്ടുള്ള ചിപ്പിൻറെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ ട്രോജൻ സർക്യൂട്ടിന്റെ പവർ പ്രൊഫൈലും നമ്മുടെ പൊസിഷനിലുള്ള ഗോൾഡൻ സർക്യൂട്ടുകളും താരതമ്യം ചെയ്താൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നേരിയ വ്യത്യാസം കാണാം ഇവിടെ ഈ കാണുന്ന ചുവന്ന പ്രൊഫൈൽ ഗോൾഡൻ പ്രൊഫൈലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസമുള്ള ട്രോജൻ പ്രൊഫൈൽ അപ്പോൾ നമുക്ക് ഡിസൈൻ ബിയിൽ ട്രോജൻ സന്നിഹിതമാണെന്ന തീരുമാനത്തിലെത്താം കൂടാതെ ഈ പവർ പ്രൊഫൈലുകളെ അവലോകനം ചെയ്യുമ്പോൾ കുറച്ചു കൂടി നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കാം അതിൽ ഒരെണ്ണം ഡിഫറെൻസ് ഓഫ് ഡിസ്ട്രിബ്യുഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ട്രോജൻ ഇല്ലാത്ത ഗോൾഡൻ സർക്യൂട്ടും ട്രോജൻ ഉള്ള സർക്യൂട്ടിനും ഇടയിൽ ഉള്ള ഡിസ്ട്രിബ്യുഷൻസ് ആണ് നമുക്ക് ഈ ഡിസ്ട്രിബ്യുഷൻസിൽ ഉള്ള വ്യത്യാസം നോക്കാം ഈ പവർ പ്രൊഫൈലുകളുടെ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് CDF ഉം സം ഓഫ് സ്ക്വയർഡ് ഡിഫറെൻസസ്സ് പോലുള്ള ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കാം ഈ വ്യത്യാസം ഒരു പ്രത്യേക അതിരു കടന്നാൽ നമുക്ക് ട്രോജൻ ഉണ്ടെന്നു മനസ്സിലാക്കാം ഇതും ഗവേഷണത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിലാണ് ഇനിയും കുറെ കൂടി മുന്നോട്ടു പോകാനുണ്ട്